ഹെലോ സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഈ വിശദീകരണത്തിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ കോവേർട്ട് ചാനലുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതിൻറെ തിയറിയും ക്യാഷെയിലൂടെ ഇവ എങ്ങനെയാണു എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതെന്നും നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണു ഒരു കോവേർട്ട് ചാനൽ ഉണ്ടാക്കുക എന്നും എങ്ങനെയാണ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതെന്നും നോക്കാം ഈ സെറ്റപ്പ് വിർച്വൽ മെഷീനിൽ റൺ ചെയ്തേക്കില്ല എന്തിരുന്നാലും ഞങ്ങൾ ഇതിന്റെ സോഴ്സ് കോഡ് തരുന്നുണ്ട് നിങ്ങൾക്കിത് ഡൌൺലോഡ് ചെയ്തു നിങ്ങളുടെ സ്വന്തം മെഷീനിൽ പരീക്ഷിക്കാം ക്യാഷെ മെമ്മറി ഉപയോഗിച്ച് ഒരു കോവേർട്ട് ചാനൽ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം അറിയേണ്ടത് പ്രോസസ്സിനെയും അതിലടങ്ങിയിരിക്കുന്ന ക്യാഷെ മെമ്മറിയെ കുറിച്ചും ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇന്റലിന്റെ i7 മെഷീൻ ആണ് അതിൽ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പ്രവർത്തിക്കുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോസെസ്സറിന്റെ വിശദാംശങ്ങളാണ് ഇതൊരു 4 കോർ പ്രോസെസ്സർ ആണ് ഈ 4 കോറിൽ 8 ഹൈപ്പർ ത്രെഡ്സ് ഉണ്ട് ഓരോ കോറിലും രണ്ടു ഹൈപ്പർ ത്രെഡ്സ് അത്യാവശ്യം ആണ് നിങ്ങൾ ഇത് ഉബുണ്ടു റൺ ചെയ്യുന്ന സിസ്റ്റത്തിൽ റൺ ചെയ്യുകയാണെങ്കിൽ cat proccpuinfo എന്ന കമാൻഡ് ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉള്ള എല്ലാ പ്രോസെസ്സറിന്റെ വിശദാംശങ്ങളും ലിസ്റ്റ് ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഇതൊരു 4 കോർ പ്രോസെസ്സർ ആണ് അതുകൊണ്ടു ഓരോ കോറിനും 0 1 2 and 3 എന്ന കോർ ID ലഭിക്കും ഉദാഹരണത്തിന് ഇവിടെ കാണുന്നത് കോർ ID 3 ആണ് മുകളിലേക്ക് പോയാൽ കോർ ID 1 ഉം 0 ഉം കാണാം അങ്ങനെ പോകുന്നു അടുത്തതായി പ്രതിപാദിച്ചത് ഈ പ്രോസെസ്സറിൽ ഒരേ CPU കോർ ഷെയർ ചെയ്യുന്ന രണ്ടു ഹൈപ്പർ ത്രെഡ്സ് ഉണ്ടെന്നാണ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം പ്രോസെസ്സർ നമ്പർ 0 ഉം നമ്പർ 4 ഉം ഒരേ CPU കോർ ഷെയർ ചെയ്യുന്നു നമുക്കിത് താഴെ പറയുന്ന പോലെ വെരിഫൈ ചെയ്യാം ഇതാണ് പ്രോസെസ്സർ 0 അത് ഈ കോർ ID 0 ആയ ഈ കോറിൽ ആണുള്ളത് ഇനി പ്രോസെസ്സർ 4 ൽ നോക്കിയാൽ പ്രോസെസ്സർ 4 ഉം അതെ കോർ ID ഉള്ള കോറിൽ തന്നെ ആണ് അതുപോലെ നിങ്ങൾ ഈ പ്രോസെസ്സറിലെ മറ്റു സംഗതികളിലൂടെ കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാം പ്രോസെസ്സർ 1 ഉം 5 ഉം ഷെയർ ചെയ്യുന്നത് കോർ ID 1 ആയ പ്രോസെസ്സർ ആണെന്ന് അങ്ങനെ പോകുന്നു രണ്ടു പ്രൊസസ്സറുകൾക്കു ഇടയ്ക്കു ഒരു കോവേർട്ട് ചാനൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ കോറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു രണ്ടു ഹൈപ്പർ ത്രെഡ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രോസെസ്സർ 0 ഉം പ്രോസെസ്സർ 4 ഉം തിരഞ്ഞെടുക്കാം അടുത്തതായി നമുക്ക് ഈ പ്രോസെസ്സറിന്റെ ക്യാഷെ സ്ട്രക്ച്ചർ അറിയണം ഈ വിവരം നമുക്ക് sysdevicessystemcpucpu0cache എന്ന ഡയറക്ടറിയിൽ നിന്ന് ലഭിക്കും ഈ ഡയറക്ടറി CPU 0 ക്ക് പ്രാപ്യമായ ക്യാഷെ മെമ്മറികൾ ലിസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഇൻഡക്സ് 0 ൽ പോകാം നമുക്ക് നോക്കാം ഇവിടെ സന്നിഹിതമായിരിക്കുന്ന ക്യാഷെ ഏതു തരമാണെന്ന് അത് D ആണ് ഇത് കാണിക്കുന്നത് CPU 0 ൽ ഉള്ള ക്യാഷെ ആണെന്നാണ് ഇൻഡക്സ് 0 ൽ ഡാറ്റ ക്യാഷെ ആണ് ഇവിടെ കാണുന്നത് പോലെ അതിന്റെ സൈസ് 32 കിലോബൈറ്റ് ആണ് നമുക്ക് ഈ ക്യാഷെ മെമ്മറി ഷെയർ ചെയ്യുന്ന മറ്റു പ്രോസെസ്സറുകളുടെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നതാണ് ഷെയർഡ് shared cpu list എന്ന ഫയലിൽ നിന്നാണ് ഇത് ലഭിക്കുക രണ്ട് പ്രോസെസ്സറുകൾ പ്രോസെസ്സർ 0 ഉം 4 ഉം ഈ ക്യാഷെ ആണ് ഷെയർ ചെയുന്നത് എന്ന കാണാം ഇപ്പോൾ നമുക്ക് ഒരു ക്യാഷെ കോവേർട്ട് ചാനൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷെ കോവേർട്ട് ചാനൽ ഈ രണ്ടു പ്രോസെസ്സറുകൾകിടക്കു ഉണ്ടാക്കണമായിരുന്നു ഈ രണ്ടു പ്രോസെസ്സുകൾ തമ്മിൽ വിവരങ്ങൾ ഷെയർ ചെയ്യണമായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വച്ചാൽ നമുക്ക് ഒരു പ്രോസെസ്സ് CPU 0 ലും മറ്റൊന്ന് CPU 4 ലും റൺ ചെയ്യാം എന്നിട്ട് വിവരം കൈമാറാൻ ഷെയർഡ് ക്യാഷെ ഉപയോഗിക്കാം വിവിധ വഴികൾ അല്ലെങ്കിൽ അസ്സോസിയേറ്റിവിറ്റി മുതലായ ഈ ക്യാഷെയെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ താഴെ പറയുന്ന തരത്തിൽ ലഭ്യമാകുന്നതാണ് ഇത് 8 വേ അസ്സോസിയേറ്റീവ് ക്യാഷെ ആണ് അത് കൊണ്ട് തന്നെ 64 സെറ്റ് നമ്പറുകൾ ആണിതിൽ ഉണ്ടാകുക ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ക്യാഷെ ലൈനിന്റെ സൈസ് 64 ആയിരിക്കും ഈ വിവരങ്ങളൊക്കെ വച്ച് നമുക്ക് ഇതുപോലെ ഒരു ക്യാഷെയുടെ അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാം ഈ ക്യാഷെ മെമ്മറിക്ക് 64 ബിറ്റ്സ് ക്യാഷെ ലൈൻ സൈസ് ഉണ്ടെന്നാണ് നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് അഡ്രസ്സിന്റെ ലോവെസ്ററ് 6 ബിറ്റ്സ് ആണ് ക്യാഷെ ലൈൻ സൈസിനെ അഡ്രസ്സ് ചെയ്യുന്നത് അതിനുപുറമെ 64 ക്യാഷെ സെറ്റ്സ് ഉള്ളതുമുണ്ട് അവയെ അഡ്രസ്സ് ചെയ്യാൻ വേറെ 6 ബിറ്റ്സ് വേണം ഈ രണ്ടു 6 ബിറ്റ്സ് ഓഫ്സെറ്റ് ആണ് ഇത് ലൈനിനു അകത്തും ഈ 6 ബിറ്റ്സ് ഒരു പ്രത്യേക സെറ്റിന്റെ അഡ്രസ്സ് തരുന്നു ക്യാഷെ ബേസ്ഡ് കോവേർട്ട് ചാനൽ ഉണ്ടാക്കാനായി ഇതുപോലുള്ള വിവരങ്ങൾ ആവശ്യമായി വരില്ലെന്ന് പിന്നീട് നമുക്ക് പ്രോഗ്രാമുകളിൽ കാണാം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ക്യാഷെ സ്ട്രക്ച്ചറും ഈ മെഷീനിൽ ഉള്ള പ്രൊസസ്സർനെ കുറിച്ചും അറിയാം അടുത്തതായി നമുക്ക് ഒരു ക്യാഷെ ബേസ്ഡ് കോവേർട്ട് ചാനൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് സെൻഡർ എന്നും റിസീവർ എന്നും ഉള്ള ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടു പ്രോസസ്സ് വേണം ഇവ രണ്ടും പൂർണമായും പരസ്പരം ഐസൊലേറ്റഡ് ആണ് സെൻഡർ എന്നത് ഒരു വിശേഷാധികാരമുള്ള പ്രോസസ്സ് ആയി കണക്കാക്കാം അതായതു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ റൺ ചെയ്യുന്നത് പോലെയുള്ളത് റിസീവർ പ്രോസസ്സ് വിശേഷാധികാരമില്ലാത്തതാണ് ഇവ രണ്ടും വ്യത്യസ്തരായ യൂസേഴ്സ് മുഖാന്തിരം റൺ ചെയ്യപ്പെടുന്നവയാണ് അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും ഹാർഡ് വേറിനെ കുറിച്ചും അറിയേണ്ടത് എന്തന്നെന്നു വച്ചാൽ ഹാർഡ് വേറിലും സിസ്റ്റം സോഫ്റ്റ് വേറിലും ധാരാളം മെക്കാനിസംസ് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ റിസീവർക്ക് സെൻഡറിൽ നിന്ന് നേരെ ഡാറ്റ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കില്ല അതുപോലെ തന്നെ തിരിച്ചും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് സെൻഡറും റിസീവറും ഒരു ഷെയർഡ് ക്യാഷെ മെമ്മറി ഉപയോഗിക്കാണ് ഒരു പ്രോസസ്സിൽ നിന്നും മറ്റേതിലേക്കു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നുവച്ചാൽ ക്യാഷെ മെമ്മറി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോസസ്സിനു ക്യാഷെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുവാൻ അന്തർലീനമായ ഒരു വഴി ഇല്ല എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുമ്പ് തിയറി വീഡിയോകളിൽ കണ്ടിട്ടുള്ളത് പോലെയാണ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഇൻഫർമേഷൻ പാസ്സ് ചെയ്യാനായി ഒരു മെമ്മറി ആക്സസിനുള്ള എക്സിക്യൂഷൻ ടൈം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് പറയാം സെൻഡറിൽ നിന്ന് റിസീവറിലേക്കു അയക്കാൻ ഒരു മെസ്സേജ് ഉണ്ട് അതായത് ഒരു ബൈനറി മെസ്സേജ് 1101101 ഇനി നമ്മൾ അനുമാനിക്കേണ്ടത് ഈ രണ്ടു പ്രോസസ്സ് അതായതു സെൻഡറും റിസീവറും റൺ ചെയ്യുന്നത് ഒരേ പ്രോസെസ്സറിൽ തന്നെയാണെന്നും അവ ഒരു ക്യാഷെ മെമ്മറിയെ ആണ് ഷെയർ ചെയ്യുന്നതും എന്നും ആണ് ഉദാഹരണത്തിന് പ്രോസെസ്സർ 0 ഉം 4 ഉം അപ്പോൾ ഒരു ക്യാഷെ കോവേർട്ട് ചാനൽ ഉണ്ടാക്കാനായി ആദ്യം ചെയ്യപ്പെടേണ്ടത് നിശ്ചിത പോർട്ടുകളുടെ സെറ്റിന്മേൽ സെൻഡറും റിസീവറും തമ്മിൽ ഒരു ധാരണയാകുക എന്നതാണ് അപ്പോൾ നമുക്ക് ഈ പോർട്ടുകളെ 10 20 30 40 എന്നിങ്ങനെ വിളിക്കാം ഇതിൽ രണ്ടെണ്ണത്തിനെ ഡാറ്റ പോർട്ട് ആയി കാണാം അതുകൊണ്ട് ഇവ ഡാറ്റ പോർട്ടും 30 40 എന്നിവ കണ്ട്രോൾ പോർട്ടും ആക്കാം കോവേർട്ട് ചാനൽ തുടങ്ങുന്നതിനു മുമ്പ് സെൻഡറും റിസീവറും ഈ പോർട്ട് പരിചയപ്പെടേണ്ടതുണ്ട് നമ്മൾ കാണുന്ന ഈ വിവരണത്തിൽ പറയുന്ന പ്രോഗ്രാമിൽ പോർട്ട് 30 ഓഡ്ഡ് ബിറ്റ് സെൻഡ് ചെയ്യാനും പോർട്ട് 40 ഈവൻ ബിറ്റ് സെൻഡ് ചെയ്യാനും ആണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ പോർട്ടുകൾ പോർട്ട് നമ്പർ 10 സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാം നമ്മൾ തുടങ്ങുന്നത് 0 th ബിറ്റിൽ നിന്ന് ആയതിനാൽ ഈ 1 ആണ് ആദ്യം അയക്കുക അടുത്ത ബിറ്റ് അതും 1 ആണ് ഈ 10 പോർട്ടിലേക്കു അയക്കപ്പെടും മൂന്നാമത്തെ ബിറ്റ് 0 ഈവൻ കണ്ട്രോൾ ലൈനിലൂടെ അയക്കും 30 യെ കണ്ട്രോൾ ചെയ്യുന്ന നാലാമത്തെ ബിറ്റ് ഈ പോർട്ടിലേക്കു അയക്കും ഇങ്ങനെ നമ്മൾ സെൻഡറിൽ നിന്ന് റിസീവറിലേക്കു ഓരോ ബിറ്റുകൾ അയക്കും ഇനി നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് തികച്ചും വ്യത്യസ്തമായ റിസീവർ c എന്നും സെൻഡർ c എന്നും അറിയപ്പെടുന്ന രണ്ടു പ്രോഗ്രാമുകൾ ഉണ്ട് നജ്ൻ ഈ പ്രോഗ്രാംസ് നിങ്ങളുമായി ഷെയർ ചെയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെ മെഷീനിൽ നോക്കാം ഇനി നമ്മളെ ആദ്യം ചെയ്യേണ്ടത് മേക്ക് ക്ളീനും മേക്കും ആണ് അപ്പോൾ സെൻഡർ എന്നും റിസീവർ എന്നും രണ്ടു എക്സിക്യൂട്ടബിള്സ് ലഭിക്കും ഇനി നമ്മൾ ഇവിഡി കാണിക്കുന്നത് എന്താണെന്നുവച്ചാൽ ഷെയർഡ് ക്യാഷെ ഉപയോഗിച്ച് സെൻഡറും റിസീവറും ഥാമിൽ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇത് എങ്ങനെയാണു പ്രവർത്തിക്കുന്നത് എന്ന വിശദമായി കാണുന്നതിനുമുൻപ് നമുക്ക് ഈ വിവരണം നോക്കാം ആദ്യം ചെയ്യേണ്ടത് ക്യാഷെ ഷെയർഡ് ആണെന്ന് തീർച്ചപ്പെടുത്തികൊണ്ട് റിസീവർ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ കണ്ടതുപോലേ പ്രൊസസർ 0 ഉം 4 ഉം ഒരേ CPU തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം ഈ പ്രോസസ്സ് സെൻഡറും റിസീവറും ഈ കോറിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇത് നമുക്ക് ടാസ്ക്സെറ്റ് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാം taskset c 0 receiver മാത്രമല്ല ധാരണ പ്രകാരമുള്ള പോർട്ടുകളും ഇവിടെ നൽകുന്നു അതായതു 10 20 30 40 നമ്മൾ ക്യാഷെ കോവേർട്ട് ചാനലിലെ പോർട്ടുകൾ നിർവചിച്ചതു വ്യത്യസ്തമായ ക്യാഷെ സെറ്റുകളിലായിരുന്നു എന്ന് ഓർക്കണം L 1 ഡാറ്റാ ക്യാഷെയിൽ 64 ക്യാഷെ സെറ്റ്സ് ഉണ്ട് നാമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി 10 20 30 44 എന്നീ 4 ക്യാഷെ സെറ്റ്സ് ആണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് 10 20 എന്നീ രണ്ട് ക്യാഷെ സെറ്റ്സ് ഡാറ്റാ ട്രാൻസ്ഫർ ചെയ്യാനും 30 40 എന്നിവ കോൺട്രോളിനും വേണ്ടി ഉപയോഗിക്കുന്നു ഇനി നമുക്ക് റിസീവർ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കാണുന്നത് പോലെ തികച്ചും ഒരു ഐസൊലേറ്റഡ് എൻവിയോണ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യണം അതായതു സെർവർ CPU 4 ൽ ആണ് റൺ ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കണം ടാസ്ക് സെറ്റ്സ് റൺ ചെയുമ്പോൾ ഏതു CPU ൽ ആണെന്ന് പറയണം ഇവിടെ ഇത് 4 ആണ് മുൻപ് ധാരണയായ 10 20 30 40 എന്നീ പോർട്ടുകളും കൂടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്നുവച്ചാൽ സെൻഡർ ഈവൻ ലൊക്കേഷൻ ആയ 0 എന്ന സ്ഥാനത്തുള്ള ബിറ്റ് സെൻഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് കാണാം ഈ സെൻഡറിന് ക്യാഷെ ഉപയോഗിച്ച് റിസീവറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് അതായത് ഈ 0 ബിറ്റ് റിസീവറിൽ എത്തപ്പെട്ടിട്ടുണ്ട് അടുത്തതായി സെൻഡർ അയക്കുന്ന ബിറ്റ് 1 ആണ് അതായത് ഓഡ്ഡ് ബിറ്റ് റിസീവർ ആ ബിറ്റും റിസീവ് ചെയ്യുന്നത് കാണാം അങ്ങനെ കുറച്ചു നേരം കൊണ്ട് കുറച്ചധികം ബിറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് കാണാം മൂന്നാമതായി സെൻഡ് ചെയ്യപ്പെടുന്നത് വീണ്ടും 1 ആണ് ഇതൊരു ഈവൻ ബിറ്റ് ആണ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ബിറ്റും റിസീവർ റിസീവ് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈവൻ ബിറ്റായ ബിറ്റ് നമ്പർ 2 ൻറെ വാല്യൂ 1 ആണ് ഇനി നമുക്ക് കുറച്ചു കാത്തിരിക്കാം ഒരു മിനിറ്റോ മറ്റോ കുറച്ചധികം ബിറ്റുകൾ ട്രാൻസ്മിറ് ചെയ്യപ്പെടുന്നത് കാണാം ഇത് വളരെയധികം സ്ലോ ആയ സംഗതിയാണ് എന്നാലും ഇതിൽനിന്ന് എന്താണ് മനസ്സിലാകുന്നതെന്നു വച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ് വെയറും വളരെ വലിയ പ്രൊട്ടക്ഷൻ നൽകിയിട്ടും സെൻഡർക്കും റിസീവറിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു ഇത് രണ്ടു സാധാരണ പ്രൊസസ്സറുകളിൽ ആണ് സംഭവിച്ചത് നമ്മൾ മുൻപ് ഈ ലെക്ച്ചറിൽ തന്നെ പഠിച്ച ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവിയോണ്മെന്റ്സ് ആയ SGX Trustzone എന്നിവയിൽ പോലും നമുക്കിത് വിവരിക്കാൻ കഴിയും ഇത്തരം കോവേർട്ട് ചാനൽന് വിശ്വാസയോഗ്യമായ എൻവിയോണ്മെന്റിൽ വിശ്വാസയോഗ്യമല്ലാത്ത നിയമനങ്ങൾ നടത്താൻ സാധിക്കും കോവേർട്ട് ചാനലിനെ തളർത്തുന്ന ഒരു സംഗതി എന്നത് സെൻഡറിൽ നിന്ന് റിസീവറിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടതാണ് ഇത് വളരെയേറെ വേഗം കുറഞ്ഞ ഒരു സംഗതിയാണ് അളവ് ബിറ്റ്സ് സെക്കൻഡ് bitssecond പോലുള്ളതാണ് മാത്രമല്ല നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഈ കോഡ് ഉത്തമീകരിച്ചിട്ടില്ല വേഗത ഒരു സെക്കൻഡിൽ ഒരു ബിറ്റിനേക്കാൾ കുറഞ്ഞാലും അറ്റാക്കർസ് ഇതിനാൽ ഉത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ട്രാൻസ്മിഷന്റെ തോത് അറ്റാക്കർസിനെ സംബന്ധിച്ച് അത്ര നിർണ്ണായകമല്ല വിവരങ്ങൾ മറുവശത്തു കിട്ടുന്നിടത്തോളം കാലം ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നത് കണ്ടു ഇനി നമുക്ക് കുറച്ചുകൂടി വിശദമായി ഈ പ്രോഗ്രാമുകൾക്കുള്ളിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം അതുകൊണ്ട് നമുക്ക് സെർവെറും റിസീവറും നിർത്താം ഇപ്പോൾ നിങ്ങൾ ഓർമിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കുറച്ചു പുറകിലേക്ക് പോകൂ ഇവിടെ കുറച്ചു ബിറ്റുകൾ റിസീവ് ചെയ്യുന്നുണ്ട് സെൻഡർ സ്റ്റാർട്ട് ചെയ്യാതിരുന്നിട്ട് പോലും അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് കോഡ് നോക്കാം എഡിറ്റർ തുറക്കാം എന്നിട്ട് സെൻഡർ കോഡ് ആദ്യം കാണാം ഇത് എഴുതിയിരിക്കുന്നത് IIT മദ്രാസിലെ PhD വിദ്യാർത്ഥി ആയ ജ്ഞാനാംബികയ് ആണ് ഈ ടൈം പീരീഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രധാന സംഗതി നമ്മൾക്കിത് പിന്നീട് പരിഗണിക്കാം ഇപ്പോൾ നമുക്കീ സിസ്റ്റത്തിലെ ക്യാഷെ മെമ്മറിയുടെ വിവിധ ലക്ഷണങ്ങൾ കാണാം ഈ കോവേർട്ട് ചാനൽ ലക്ഷ്യം വയ്ക്കുന്ന ഇവിടെ നിർവചിക്കപെട്ടിട്ടുള്ള ക്യാഷെ മെമ്മറിയെങ്കിലും നോക്കാം ഉദാഹരണത്തിന് 32 കിലോബൈറ്റ്സ് ഉള്ള D ക്യാഷെ D cache ഇവിടെ നമുക്ക് 64 വ്യത്യസ്ത സെറ്റ്സ് ഉള്ളതിനാൽ 6 സെറ്റ് ബിറ്റ്സ് ഉണ്ട് ഓരോ ക്യാഷെ ലൈനും 64 ബിറ്റ്സ് ആയതിനാൽ ക്യാഷെ ലൈനുകളിലെ ഓഫ്സെറ്റ് ബിറ്റ്സ് ഇവിടെയും 6 ബിറ്റ് ആണ് അത് ടോട്ടൽ ബിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് അത് അസോസിയേറ്റഡ് ബിറ്റ്സ് സെറ്റ് ബിറ്റ്സ് ബ്ലോക്ക് അഡ്രസ്സ് ബിറ്റ്സ് എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു ഇവിടെ പ്രധാനപ്പെട്ട സംഗതി എന്നത് ക്യാഷെ മെമ്മറിയുടെ അസ്സോസിയേറ്റിവിറ്റി ആണ് ഈ മെമ്മറി 8 വേ അസ്സോസിയേറ്റീവ് ക്യാഷെ ആണെന്നോർക്കണം അതുകൊണ്ടു തന്നെ ഒരു സെറ്റിൽ കോൺഫ്ലിക്റ് ഉണ്ടാക്കണമെങ്കിൽ അതേ ക്യാഷെ സെറ്റിൽ 8 അഡ്രെസ്സുകൾ ഉണ്ടാകണം ക്യാഷെയിൽ ഓരോ സെറ്റിന് അനുസൃതമായി ഒരു പ്രത്യേക ചാനൽ ഉണ്ടെന്നു ഓരോ സെറ്റിന് തോന്നത്തക്ക വിധത്തിലായിരിക്കണം ഈ 8 അഡ്രെസ്സുകൾ ഡിസൈൻ ചെയ്യേണ്ടത് കൺട്രോൾ പോർട്ടുകളും ഡാറ്റാ പോർട്ടുകളും ആണ് ആർഗ്യുമെന്റ്സ് ആയി നൽകുന്നത് അതായത് 10 20 30 40 എന്നിവ കമാൻഡ് ലൈനിൽ നിന്ന് എടുത്ത് A0 A1 B0 B1എന്നീ പല ഇന്റിജേഴ്സ് സെറ്റ് ഇന്ഡക്സിലേക്ക് വയ്ക്കുന്നു അങ്ങനെ A0 ഉം A1 ഉം 0 ഉം 1 ഉം ട്രാൻസ്ഫർ ചെയ്യാനും B0 ഉം B1 ഉം കൺട്രോൾ പോർട്ടിൽ യഥാക്രമം ഓഡ്ഡ് ബിറ്റും ഈവൻ ബിറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നു അടുത്ത സംഗതിയായി നമുക്ക് വ്യത്യസ്തമായ അഡ്രെസ്സുകളെ ക്രാഫ്റ്റ് ചെയ്യണം നമുക്ക് 8 വ്യത്യസ്തമായ അഡ്രെസ്സുകളുടെ ശേഖരമായ 4 സെറ്റ് ആവശ്യമുണ്ട് ഉദാഹരണത്തിന് A00 to A07 എന്നത് 8 വേ അസ്സോസിയേറ്റീവ് ക്യാഷെക്ക് അനുസൃതമായതാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല എന്നാൽ നമ്മൾ മുൻപ് ഈ വീഡിയോയിൽ വിശദീകരിച്ചു കാണിച്ചു തന്നതാണ് നിങ്ങള്ക്ക് കാണാം എല്ലാവർക്കും ഒരേ സെറ്റ് തന്നെ പ്രാപ്യമായ രീതിയിൽ എങ്ങനെയാണ് 8 അഡ്രെസ്സുകൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ലീസ്റ്റ് റീസെന്റലി യൂസ്ഡ് എന്ന പോളിസി ആണ് ക്യാഷെയിൽ സൃഷ്ടിക്കപ്പെടേണ്ടതെന്നു അനുമാനിക്കാം മാത്രമല്ല ഈ 8 അഡ്രെസ്സുകൾ എല്ലാം ഒരേ ക്യാഷെ സെറ്റിന്റെ വ്യത്യസ്ത വഴികളിൽ തന്നെ വരുമെന്നും ഊഹിക്കാം അതുപോലെ A0 A1 അഡ്രസ്സുകളും B0 B1 അഡ്രെസ്സുകളും ക്രാഫ്റ്റ് ചെയ്യപ്പെടുന്നു അടുത്ത സംഗതി കുറച്ചു താല്പര്യം ഉള്ളതായിരിക്കും അതായതു എങ്ങനെയാണു ഡാറ്റാ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് സെൻഡറിൽ നിന്ന് റിസീവറിലേക്കു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് താഴെ പറയുന്നത് ഡാറ്റാ എന്നത് ബൈനറി ബിറ്റ്സ് 011 അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയുന്നത് എന്താണെന്നുവച്ചാൽ മെമ്മറി ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നിട്ടവ സെൻഡറിൽ നിന്ന് റിസീവറിലേക്കു സെൻഡ് ചെയ്യാൻ തുടങ്ങും ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ഫോർ ലൂപ്പ് ആണ് ഓരോ ഇറ്ററേഷനും epoch TIME PERIOD റൺ ചെയ്യും സെൻഡർ പ്രോസസ്സിൽ നിന്ന് അസിൻക്രണസ് ആയി പ്രവർത്തിക്കുന്ന റിസീവറിനു വിവരങ്ങൾ റീഡ് ചെയ്യുന്നതിന് ആവശ്യമായ സമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണിത് ഇനി നമുക്ക് ഇപ്പോക് എങ്ങനെ നിർവചിക്കപ്പെട്ടിരിക്കുന്നു എന്ന നോക്കാം ഇവിടെ അത് 128 ആണ് 2 24 ആണ് ടൈം പീരീഡ് അതായത് ഈ ലൂപ്പുകൾ 2 24 128 പ്രാവശ്യം റൺ ചെയ്യും ഇത് റിസീവറിനു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട ബിറ്റ് ലഭിക്കുന്നതിന് മതിയായ സമയം ഉണ്ട് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് മെമ്മറിയുടെ പല പല ലൊക്കേഷൻ അക്സസ്സ് ചെയ്യുകയാണ് ഈ tA 0 ഉം tB 0 ഉം ഈ അഡ്രെസ്സുകളിലേക്കു ഡാറ്റാ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനായിട്ടുള്ള ലോഡ് സ്റ്റോർ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഓർക്കുക tB ഉപയോഗിക്കുന്നത് ഡാറ്റയെ കണ്ട്രോൾ ചെയ്യാനും ഓഡ്ഡ് അല്ലെങ്കിൽ ഈവൻ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനും ആണ് ഇതാണ് സെൻഡർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഈ മെമ്മറി അഡ്രസ്സുകളിലേക്കാണ് സെൻഡർ അക്സസ്സ് നടത്തുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം സെൻഡർ മെമ്മറി അക്സസ്സ് ചെയ്യുമ്പോഴും ഡാറ്റാ ക്യാഷെയിൽ ലഭ്യമല്ലെങ്കിൽ ലോവർ ക്യാഷെകളായ L2 L3 എന്നിവയിൽ നിന്ന് എടുക്കപ്പെടും എന്നിട്ട് L1 ക്യാഷെയിലും റെജിസ്റ്ററിലും സ്റ്റോർ ചെയ്യും ഇപ്പോൾ റിസീവറിൽ സംഭവിക്കുന്നത് എന്താണെന്നുവച്ചാൽ ഇവിടെ കാണുന്ന പോലെ റിസീവറിലും അതേ പോലത്തെ ലൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കോമൺ ക്യാഷെയും ധാരണപ്രകാരമുള്ള ക്യാഷെ സെറ്റ്സ് തമ്മിൽ വരുന്ന കോൺഫ്ലിക്ട്സ് കാരണം ചില മെമ്മറി അക്സസ്സ് വേഗത്തിലാവുകയും ചിലത് സാവധാനത്തിലാവുകയും ചെയ്യും ഈ കൂടിയ സമയം കാണിക്കുന്നത് സെൻഡർ ആ ക്യാഷെ സെറ്റിൽ എന്തോ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനാൽ ഒരു മിസ്സ് ഉണ്ടായാൽ ഡാറ്റ ലോവർ ക്യാഷെയിൽ നിന്നോ അല്ലെങ്കിൽ DRAM ൽ നിന്നോ എടുക്കേണ്ടതായിട്ട് വരും